സംഭവിക്കുന്ന ഒരു പ്രശ്നം ലോഗുകൾ വളരെ വലുതായിത്തീരും എന്നതാണ് അവ വളരെ വലുതാണ് കാരണം എല്ലാ ട്രാൻസാക്ഷനുകളും ലോഗുകളിൽ എഴുതിയിരിക്കുന്നു പെട്ടെന്ന് ഒരു ട്രാൻസാക്ഷൻ പൂർത്തിയായി വളരെ പഴയ ചില ട്രാൻസാക്ഷനു വേണ്ടി എല്ലാ ലോഗുകളും പരിശോധിക്കുന്നതിൽ അർത്ഥമില്ല എന്നാൽ കൃത്യത നിലനിർത്താൻ ഒരു പ്രത്യേക ട്രാൻസാക്ഷൻ ലോഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷനിലെ എല്ലാ എഴുത്തുകളും യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് പോയി എന്ന് പറയുന്നതിനുള്ള ഒരു മാർഗ്ഗം ഉണ്ടായിരിക്കണം ഡാറ്റാബേസ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഫലം കണ്ടു അത് എന്തുകൊണ്ടാണ് എന്റെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് ഇനിപ്പറയുന്നവയാണ് ചെയ്യുന്നത് ഈ ഡാറ്റ ഇനങ്ങളുടെ യഥാർത്ഥ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഡാറ്റാബേസ് ഉണ്ട് തുടർന്ന് ഡാറ്റാബേസിന്റെ ഒരു താൽക്കാലിക പകർപ്പ് ഉണ്ട് എല്ലാ എഴുത്തുകളും ഇതിൽ താൽക്കാലികമായി മാറ്റിയിരിക്കുന്നു അതിനാൽ ഒരു താൽക്കാലിക പകർപ്പ് ഉണ്ട് ലോഗിൽ ഒരു എൻട്രി ഉണ്ട് അത് ഇവിടെ മാറ്റിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇതിനർത്ഥം ഇത് യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് സ്റ്റേബിൾ സ്റ്റോറേജാണ് അത് ഒരിക്കലും നഷ്ടമാകില്ല ധാരാളം ലോഗ് എൻട്രികൾ ഉണ്ടെങ്കിൽ താൽക്കാലിക കോപ്പിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഏത് താൽക്കാലിക കാര്യങ്ങൾ ഡാറ്റാബേസിലേക്ക് പോയി എന്ന് ഉറപ്പില്ല അതാണ് മുഴുവൻ ആശയവും ലോഗുകൾ വളരെ വലുതായിത്തീരുകയും ലോഗുകളിൽ തിരയുകയും ഏത് ട്രാൻസാക്ഷനുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ കമ്മിറ്റഡല്ലെന്നും കണ്ടെത്തുകയും ചെയ്യുന്നു ഇവയെല്ലാം വളരെയധികം സമയമെടുക്കും അതെല്ലാം തടയുന്നതിന് ഒരു ആശയം ഉപയോഗിക്കുന്നു അതിനെ ചെക്ക് പോയിന്റിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങളിൽ പലരും ചെക്ക് പോയിന്റിന്റെ ഈ ആശയം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ലോഗിൽ ഒരു ചെക്ക് പോയിന്റ് എടുക്കുമ്പോഴെല്ലാം ചെക്ക് പോയിന്റിന് ശേഷമുള്ള എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കാനാണ് ചെക്ക് പോയിന്റിംഗ് ശ്രമിക്കുന്നത് ഇനിപ്പറയുന്നവയുടെ ശരിയായ അർത്ഥം എന്നത് വളരെ വലിയ ലോഗ് റെക്കോർഡ് ഉണ്ട് അതിൽ ഒരു ചെക്ക് പോയിന്റ് എടുക്കുന്നു ലോഗിലുള്ളതെല്ലാം സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് മാറ്റുന്നു അതുവരെയുള്ള ലോഗ് സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് വെക്കുന്നു ഏറ്റവും പ്രധാനമായി ചെക്ക് പോയിന്റ് വരെ ശേഷിക്കുന്ന എല്ലാ എഴുത്തുകളും ഡാറ്റാബേസിലേക്ക് ഒഴുകുന്നു ചെക്ക് പോയിന്റ് ലോഗിൽ ഉണ്ടെങ്കിൽ ചെക്ക് പോയിന്റിന് മുമ്പ് ചില ട്രാൻസാക്ഷനുകൾക്കായി ഒരു എഴുത്ത് എൻട്രി ഉണ്ടെങ്കിൽ ഈ പ്രഭാവം യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് പോകുന്നു ഇത് ഉറപ്പുവരുത്തുന്നു അത് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നിർബന്ധിതമായി ഡാറ്റാബേസിലേക്ക് അയയ്ക്കുന്നു സ്റ്റേബിൾ സ്റ്റോറേജിൽ ലോഗ് എഴുതുകയും ലോഗിലെ എല്ലാ റൈറ്റ് റെക്കോർഡുകളും ഡാറ്റാബേസിലേക്ക് പോയി ചെക്ക് പോയിന്റ് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു ചെക്ക് പോയിന്റ് എൻട്രി ഇപ്പോൾ സഹായിക്കുന്നത് സിസ്റ്റം തകരാറിലായാൽ ലോഗ് ചെയ്യേണ്ടത് അവസാന ചെക്ക് പോയിന്റ് കണ്ടെത്തുക എന്നതാണ് അതിനുമുമ്പ് എല്ലാം ശരിയാണെന്ന് ഉറപ്പാണ് ചെക്ക് പോയിന്റിന് ശേഷം മാത്രമേ അത് വിഷമിക്കേണ്ടതുള്ളൂ ലോഗ് വളരെ വലുതാണെങ്കിൽ പോലും ചെക്ക് പോയിന്റ് സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ ഭാഗം വരെയുള്ള എല്ലാം ശരിയാണ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല അതാണ് മുഴുവൻ ആശയം ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് കരുതുക കമ്മിറ്റ് T0 അതിനുശേഷം ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ചെക്ക് പോയിന്റ് ഉണ്ട് എന്നതിനർത്ഥം ഇതിന് താഴെയുള്ള എല്ലാ എഴുത്ത് പ്രവർത്തനങ്ങളും ശരിയായി എഴുതിയിരിക്കുന്നു എന്നാണ് അതായത് T0 ന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി എഴുതിയിരിക്കുന്നു T0 കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇല്ല ഒരു ചെക്ക് പോയിന്റ് എൻട്രി ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് T0 റീഡു ചെയ്യേണ്ടതില്ല മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഒരു ചെക്ക് പോയിന്റ് എൻട്രി ഉണ്ടായേക്കാം തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം ചില ട്രാൻസാക്ഷൻ Ti യിനു കമ്മിറ്റുണ്ട് കമ്മിറ്റ് Ti ഇപ്പോൾ എന്താണ് ഉറപ്പ് നൽകുന്നത് ചെക്ക് പോയിന്റ് വരെയുള്ള എല്ലാ എഴുത്തും നടക്കുന്നു എന്നതാണ് ചെക്ക് പോയിന്റിന് ശേഷവും കമ്മിറ്റ് ടി ചെയ്യുന്നതിനുമുമ്പ് എഴുത്ത് എൻട്രികൾ ഉണ്ടായേക്കാം എല്ലാ എൻട്രികളും ടി യുടെ എല്ലാ എഴുത്തും ശരിയായി ചെയ്യുന്നുവെന്ന് ടി ഉറപ്പുനൽകുന്നില്ല ടി റീഡു ചെയ്യണം ഇത് ഒഴിവാക്കാനാവില്ല ഒരു സ്റ്റാർട്ട് Tj ഉണ്ടെന്ന് കരുതുക Tj യുടെ ആരംഭം ഇവിടെ ആയിരിക്കാം അല്ലെങ്കിൽ Tj യുടെ ആരംഭം ഇവിടെ ആയിരിക്കാം Tj ൽ ഒരു കമ്മിറ്റ് എൻട്രി ഇല്ല അത് അൺണ്ടു ചെയ്യണം എല്ലാം ശരിയായി എഴുതിയിട്ടുണ്ടെന്ന് ചെക്ക് പോയിന്റ് ഉറപ്പ് നൽകുന്നു ചെക്ക് പോയിന്റിന് മുമ്പ് ചില എഴുത്ത് പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം തുടർന്ന് ഇവിടെ Tj ഉണ്ടായിരിക്കാം ഈ കാര്യത്തിനുപകരം ഇത് ഇവിടെ നിർത്തലാക്കിയേക്കാം അല്ലെങ്കിൽ അത് അബോർട്ട് എഴുതുക പോലുമില്ല Tj പഴയപടിയാക്കണം കാരണം ചെക്ക്പോയിന്റ് എഴുത്തുകൾ അവിടെ കടന്നുപോയെന്ന് ഉറപ്പ് നൽകുന്നു അത് പഴയപടിയാക്കണം നമുക്ക് സംഗ്രഹിക്കാം ചെക്ക് പോയിന്റ് എൻട്രികൾ നടത്തുന്നതിനുമുമ്പ് നടത്തിയ ഏതെങ്കിലും ട്രാൻസാക്ഷൻ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം അതിന്റെ എല്ലാ റൈററും ശരിയാണ് ചെക്ക് പോയിന്റിന് ശേഷം ചെയ്ത എന്തെങ്കിലും പുനരാരംഭിക്കുകയും ആരംഭിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുകയും വേണം എന്നാൽ ഒരു കമ്മിറ്റ് എൻട്രിയും അൺണ്ടു ചെയ്യേണ്ടതില്ല ചെക്ക് പോയിന്റിന് മുമ്പാണെങ്കിൽ പോലും ഇത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ചെക്ക് പോയിന്റ് എഴുതുന്നതിനുപകരം ആ സമയത്ത് സജീവമായ ട്രാൻസാക്ഷനുകളുടെ പട്ടിക ഉപയോഗിച്ച് ഈ ചെക്ക് പോയിന്റ് വർദ്ധിപ്പിക്കാൻ കഴിയും എൻട്രികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നും അതിന് പറയാം ചെക്ക് പോയിന്റ് TL എൻട്രികളുടെ പട്ടികയാണ് TL T L T 0 T 2 T 5 അതിന് T0 T2 T5 സജീവമാണെന്നും മറ്റും പറയാം ഇത് എൻട്രികളുടെ പട്ടികയാണ് ചെക്ക് പോയിന്റ് എൻട്രിയുടെ ഭാഗമായാണ് ഈ ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് അതിനുശേഷം കുറച്ച് ലോഗ് എൻട്രികൾ കൂടി ഉണ്ട് ഇവിടെ ഒരു ക്രാഷുണ്ടെന്ന് കരുതുക ക്രാഷ് സംഭവിച്ചുകഴിഞ്ഞാൽ ലോഗ് ചെക്ക് പോയിന്റ് വരെ പിന്നിലേക്ക് വായിക്കുന്നു ഇനിപ്പറയുന്ന കാര്യം പൂർത്തിയായി ഈ പിന്നാക്ക സ്കാനിൽ ഒരു കമ്മിറ്റ് Ti കണ്ടെത്തിയാൽ ഒരു റീഡു ലിസ്റ്റ് ഉണ്ട് അവിടെ ടി വീണ്ടും റീഡു ലിസ്റ്റിൽ ചേർക്കുന്നു ഇത് പുറകോട്ട് സ്കാൻ ചെയ്യുമ്പോൾ ആരെങ്കിലും ആരംഭിക്കുക Tj കണ്ടെത്തിയെന്ന് കരുതുകയാണെങ്കിൽ ഒരു അൺണ്ടു പട്ടികയുണ്ട് അവിടെ Tj ചേർക്കുന്നു നേരത്തെ ആരംഭിച്ച മറ്റേതെങ്കിലും Tk ഉണ്ടെന്ന് കരുതുക ലോഗ് സ്കാനിംഗ് ചെക്ക് പോയിന്റ് വരെ മാത്രമേ പോകൂ എന്നത് ശ്രദ്ധിക്കുക ചെക്ക് പോയിന്റിന് മുമ്പ് Tk ആരംഭിച്ചു അത് കമ്മിറ്റഡല്ല ഈ ടിഎല്ലിൽ എവിടെയെങ്കിലും Tk പ്രത്യക്ഷപ്പെടണം ഇത് സജീവ ട്രാൻസാക്ഷനുകളുടെ പട്ടികയിൽ ഉണ്ടായിരിക്കണം ഇത് സജീവ ട്രാൻസാക്ഷനുകളുടെ പട്ടികയാണ് അതിൽ എവിടെയെങ്കിലും Tk പ്രത്യക്ഷപ്പെടണം ഈ സ്കാനിംഗ് ഉപയോഗിച്ച് Tk കണ്ടെത്തിയില്ല എന്നാൽ Tk ആക്റ്റീവ് ലിസ്റ്റിലാണ് തുടർന്ന് Tk ഉം അൺഡൂയിംഗ് ലിസ്റ്റിൽ ചേർക്കുന്നു റീഡു ലിസ്റ്റിൽ Tk ഉൾപ്പെട്ടിട്ടില്ല ഇതിൽ കമ്മിറ്റ് Tk എൻട്രി ഇല്ല കമ്മിറ്റ് Tk എൻട്രി ഉണ്ടെങ്കിൽ Tk റീഡു ലിസ്റ്റിലേക്ക് ചേർക്കുമായിരുന്നു തുടർന്ന് ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷേ അല്ലാത്തപക്ഷം Tk അൺണ്ടു പട്ടികയിൽ ചേർക്കേണ്ടതുണ്ട് റീഡു ലിസ്റ്റും അൺണ്ടു ലിസ്റ്റും നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് തുടർന്ന് നമ്മൾ ഒരേ കാര്യം പിന്തുടരുന്നു അൺണ്ടു ആദ്യം ഒരു വിപരീത ക്രമത്തിലാണ് ചെയ്യുന്നത് തുടർന്ന് റീഡു ഒരു ഫോർവേഡ് ക്രമത്തിലാണ് ചെയ്യുന്നത് അൺണ്ടു ലിസ്റ്റിലെ ട്രാൻസാക്ഷനുകൾ ആദ്യം ലോഗിൽ ദൃശ്യമാകുന്നതിനാൽ റിവേഴ്സ് ഓർഡറിൽ തിരികെ നൽകുകയും റീഡു ലിസ്റ്റിലെ ട്രാൻസാക്ഷനുകൾ ലോഗിൽ ദൃശ്യമാകുന്നതുപോലെ ഫോർവേഡ് ഓർഡറിൽ നടത്തുകയും ചെയ്യും ഇത് ചെക്ക് പോയിന്റ് വരെ മാത്രമേ വായിക്കൂ ചെക്ക് പോയിന്റിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ മാത്രം അൺണ്ടു ചെയ്യുകയോ റീഡു ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് കാരണം അതിനുമുമ്പ് എല്ലാം ശരിയായി റീഡു ചെയ്യുകയോ അൺണ്ടു ചെയ്യുകയോ ചെയ്തു ഇവിടെ ഒരു ഉദാഹരണം ഒരു സ്റ്റാർട്ട് T1 ഉണ്ടെന്ന് കരുതുക റൈററ് T1 B 2 3 T2 സ്റ്റാർട്ട് T2 ആരംഭിക്കുന്നു തുടർന്ന് T1 കമ്മിറ്റ് ചെയ്യുന്നു കമ്മിറ്റ് T1 മറ്റൊരു പേരിലുള്ള ഇനമായ C ലേക്ക് T2 ട്രാൻസാക്ഷൻ വഴി ഒരു റൈററ് ഉണ്ട് തുടർന്ന് മൂല്യം 7 റൈററ് T2 C 5 7 തുടർന്ന് ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ഈ ഘട്ടത്തിൽ T2 മാത്രമുള്ള സജീവ ട്രാൻസാക്ഷന്റെ ലിസ്റ്റ് ഈ ചെക്ക് പോയിന്റ് പറയും ചെക്ക് പോയിന്റ് T ചെക്ക് പോയിന്റിംഗ് ഒരു കനത്ത പ്രവർത്തനമാണ് ചെക്ക് പോയിന്റിംഗ് നടത്തുമ്പോൾ ധാരാളം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് സ്റ്റാർട്ട് T3 പിന്നെ ഒരു റൈററ് T3 A 1 9 പിന്നെ ഒരു കമ്മിറ്റ് T3 ഉണ്ട് പിന്നെ ഒരു സ്റ്റാർട്ട് T4 അവസാനമായി അവിടെ റൈററ് T4 C 7 2 നമ്മൾ കാണുന്ന ലോഗ് റെക്കോർഡിന്റെ മുഴുവൻ പട്ടികയും ഉണ്ട് ഈ സമയത്ത് ഒരു ക്രാഷ് ഉണ്ട് അൺണ്ടു റീഡു പട്ടിക എന്താണെന്നതാണ് ആദ്യം കണ്ടെത്തേണ്ടത് അൺണ്ടു പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു അൺണ്ടു ചെയ്യാനുള്ള ലിസ്റ്റ് പിന്നിലേക്ക് സ്കാൻ ചെയ്യുക അവിടെ ഒരു സ്റ്റാർട്ട് T4 ശ്രദ്ധിക്കപ്പെടുന്നു അത് അൺണ്ടു പട്ടികയിൽ ചേർത്തിരിക്കുന്നു തുടർന്ന് അത് ചെക്ക് പോയിന്റിലേക്ക് പോകുന്നു സജീവമായ ഒരു ട്രാൻസാക്ഷൻ T2 ഉണ്ട് അത് അൺണ്ടു പട്ടികയിൽ ചേർത്തിരിക്കുന്നു കാരണം അത് റീഡു ലിസ്റ്റിൽ ഇല്ല റീഡു ലിസ്റ്റിൽ അത് കമ്മിറ്റ് T3 കണ്ടെത്തുന്നു റീഡു പട്ടികയിൽ T3 മാത്രമേയുള്ളൂ ടി 1 ചെക്ക് പോയിന്റിന് മുമ്പിൽ കമ്മിറ്റഡ് ആയതിനാൽ ടി 1 പ്രത്യക്ഷപ്പെടുന്നില്ല എന്നത് ശ്രദ്ധിക്കുക തുടർന്ന് പ്രവർത്തനങ്ങളുടെ ക്രമം ആദ്യം അൺണ്ടു ചെയ്യുക തുടർന്ന് റീഡു ചെയ്യുക അൺണ്ടു പട്ടികയിൽ രണ്ട് കാര്യങ്ങളുണ്ട് അത് എങ്ങനെ ചെയ്യും അത് എപ്പോൾ ആരംഭിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ക്രമത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യപ്പെടും പ്രവർത്തനങ്ങളുടെ ക്രമം താഴെ പറയുന്നതായിരിക്കും C പഴയ മൂല്യം 7 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ T4 ന് 1 പ്രവർത്തനങ്ങൾ മാത്രമേയുള്ളൂ T2 നായി ഒന്നും ഇവിടെ ദൃശ്യമാകില്ല അതിനാൽ എന്തെങ്കിലും തിരികെ എഴുതിയിട്ടും പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല കാരണം ചെക്ക് പോയിന്റ് വരെ ദൃശ്യമാകുന്ന പ്രവർത്തനങ്ങളുടെ മാത്രം റീഡൂയിംഗും അൺഡൂയിംഗും ഇത് ചെയ്യുന്നു കൂടാതെ T3 ന് ഇത് റീഡൂ ചെയ്യേണ്ടത് ആവശ്യമാണ് A യുടെ പുതിയ മൂല്യം 9 എഴുതിയിരിക്കുന്നു ചെക്ക് പോയിന്റുള്ള ഈ മുഴുവൻ പദ്ധതിയും അങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് പൂർത്തിയാക്കാൻ രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഉണ്ട് ലോഗ് റെക്കോർഡുകളുടെ വളരെ ചെറിയ പ്രശ്നമാണ് ആദ്യ കാര്യം സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് ലോഗുകളും എഴുതിയിരിക്കുന്നു ഓരോ തവണയും ഒരു ഡാറ്റാബേസ് ഒരു റൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റീഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ലോഗിൽ എന്തെങ്കിലും എഴുതുന്നു ലോഗ് പ്രധാന മെമ്മറിയിൽ ഒരു താൽക്കാലിക ലിസ്റ്റായി പരിപാലിക്കണോ അതോ ലോഗ് ഡാറ്റാബേസിലേക്ക് എഴുതണോ അതോ ഡാറ്റാബേസിലേക്ക് എഴുതണോ അതോ ലോഗ് ചില സ്ഥിരമായ സ്റ്റോറേജിലേക്ക് തിരികെ എഴുതേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം ലോഗ് എത്ര തവണ എഴുതപ്പെടും ലോഗ് റെക്കോർഡ് ബഫറിംഗ് എന്ന ആശയം ഉണ്ട് അതായത് ഓരോ തവണയും ഒരു ലോഗ് റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് ലോഗ് തിരികെ എഴുതുന്നില്ല കുറച്ച് റെക്കോർഡുകൾ ഒരുമിച്ച് ബഫർ ചെയ്യുന്നു തുടർന്ന് ഇത് സ്റ്റേബിൾ സ്റ്റോറേജിലേക്കുള്ള ഔട്ട്പുട്ട് ആണ് കാരണം അവയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്റർ ഡിസ്ക് പേജ് ഒരുമിച്ച് ആക്സസ് ചെയ്യുന്നത് ഒരു ഡിസ്ക് ബ്ലോക്കിലേക്ക് ചേരുന്ന എല്ലാ ലോഗ് റെക്കോർഡുകളും ആദ്യം പൂരിപ്പിക്കുകയും പിന്നീട് ഡിസ്ക് ബ്ലോക്ക് ഡിസ്കിലേക്കോ സ്റ്റേബിൾ സ്റ്റോറേജിലേക്കോ എഴുതുകയും ചെയ്യും രേഖകൾ ലോഗിൽ ദൃശ്യമാകുന്ന ക്രമത്തിൽ ഫ്ലഷ് ചെയ്യുന്നു ലോഗിൽ അവ ദൃശ്യമാകുന്ന ക്രമത്തിലാണ് ഇത് ഫോഴ്സ് റൈറ്റിംഗ് എന്ന ആശയം ഉണ്ട് ഫോഴ്സ് റൈറ്റിംഗ് എന്നാൽ എഴുതേണ്ടതെല്ലാം നിർബന്ധിതമായി ഡിസ്കിലേക്ക് എഴുതിയിരിക്കുന്നു സി മുതലായ പ്രോഗ്രാമിംഗ് ഭാഷകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിനെയാണ് ഫ്ലഷ് പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത് ഫ്ലഷ് എന്നാൽ നിശ്ചയമായും അത് സ്ഥിരതയുള്ള സംഭരണത്തിലേക്ക് പോകുന്നു അതാണ് ഫ്ലഷ് ലോഗ് റെക്കോർഡിന്റെ ഈ ഫോഴ്സ് റൈറ്റിംഗ് ഉപയോഗിക്കുന്നു ചില കമ്മിറ്റ് എൻട്രികൾ ഉണ്ടെങ്കിൽ അത് എല്ലാ ലോഗ് റെക്കോർഡുകളോടൊപ്പം ഫ്ലഷ് ചെയ്യപ്പെടും ഡാറ്റാബേസിൽ എഴുതിയിരിക്കുന്ന ഡാറ്റയുടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ ലോഗ് റെക്കോർഡുകളും നേരത്തെ ചെയ്യണം യഥാർത്ഥവും റൈററ് കടന്നുപോകുന്നതിനുമുമ്പ് ഈ ലോഗ് ഫ്ലഷ് ചെയ്യണം ലോഗ് റെക്കോർഡുകൾ യഥാർത്ഥ കാര്യത്തിന് മുമ്പ് എഴുതിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ ചിലപ്പോൾ റൈറ്റ് ഫോർവേഡ് ലോഗിംഗ് എന്ന് വിളിക്കുന്നത് അതിനർത്ഥം ലോഗിംഗിന് മുമ്പ് അല്ലെങ്കിൽ യഥാർത്ഥ എഴുത്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ലോഗ് മുന്നിൽ എഴുതുന്നു എന്നാണ് ഇത് റൈറ്റ് ഫോർവേഡ് ലോഗിംഗ് ആണ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ WAL നിയമം എന്നറിയപ്പെടുന്നു ഡബ്ല്യു എ എൽ റൈറ്റ് എഹെഡ് ലോഗിംഗ് എന്നാണ് അർത്ഥമാക്കുന്നത് അതാണ് ഈ ലോഗിനെ കുറിച്ചുള്ള കാര്യം ഷാഡോ പേജിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം ഡാറ്റാബേസ് റിക്കവറി സ്കീം കൂടി ഉണ്ട് കഴിഞ്ഞ തവണ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഹ്രസ്വമായി സംസാരിച്ചെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി വിശദാംശങ്ങൾ ഇപ്രകാരമാണ് ഷാഡോ പേജിംഗിൽ ഡാറ്റാബേസിന്റെ രണ്ട് പകർപ്പുകൾ പരിപാലിക്കുന്നു OS തരത്തിൽ രണ്ട് പേജ് ടേബിളുകൾ ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കും പ്രധാനമായും പേജ് ടേബിളുകളെക്കുറിച്ച് മറക്കുന്നു ഡാറ്റാബേസിന്റെ രണ്ട് പകർപ്പുകൾ പരിപാലിക്കപ്പെടുന്നു കൂടാതെ ഡാറ്റാബേസ് ഡിസ്ക് ബ്ലോക്കുകളിലേക്കോ പേജുകളിലേക്കോ വിഭജിച്ചിരിക്കുന്നു ഈ പേജുകളുടെ ടേബിളുകൾ പരിപാലിക്കുന്നു തുടർന്ന് രണ്ട് പകർപ്പുകൾ ഉണ്ട് ആദ്യത്തേത് നിലവിലുള്ള പേജ് ടേബിളാണ് പേജ് എന്നാൽ ഡിസ്ക് ബ്ലോക്ക് മറ്റൊന്ന് ഷാഡോ പേജ് ടേബിൾ പരിപാലിക്കുന്ന രണ്ട് പകർപ്പുകൾ ഉണ്ട് ഷാഡോ പേജ് ടേബിൾ ഡിസ്കിൽ പരിപാലിക്കുന്നു അതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എന്തെങ്കിലും മാറ്റേണ്ടിവരുമ്പോഴെല്ലാം നിലവിലെ പേജ് ടേബിളിലെ അനുബന്ധ പേജാണ് മാറ്റുന്നത് എല്ലാ അപ്ഡേറ്റുകളും നിലവിലെ പേജ് ടേബിളിലേക്ക് പോകുന്നു ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴെല്ലാം നിലവിലെ പേജ് പട്ടികയിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും ഡിസ്കിലേക്ക് ഫ്ലഷ് ചെയ്യപ്പെടും ഡിസ്കിലേക്ക് ഫ്ലഷ് എന്താണ് അർത്ഥമാക്കുന്നത് ഡിസ്കിലേക്ക് ഫ്ലഷ് ചെയ്യുക എന്നതിനർത്ഥം ഇവ ഡിസ്കിലുള്ള ഷാഡോ പേജ് ടേബിളിലെ അനുബന്ധ പേജുകളിൽ എഴുതിയിരിക്കുന്നു എന്നാണ് അത് ഷാഡോ പേജുകളിലേക്ക് ഒഴുകുന്നു ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ മാത്രമാണ് ഷാഡോ പേജ് പട്ടിക യഥാർത്ഥത്തിൽ പരിഷ്ക്കരിക്കുന്നത് അതാണ് ഇപ്പോൾ ചെയ്ത കമ്മിറ്റ് ഓപ്പറേഷൻ ഇത് പിന്തുടരുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കാണിക്കാൻ കഴിയുന്നത് റിക്കവറി ആവശ്യമില്ല എന്നതാണ് അതാണ് ലളിതമായ പദ്ധതി റിക്കവറി ആവശ്യമില്ല റിക്കവറി ആവശ്യമില്ല എന്നതിന്റെ അർത്ഥമെന്താണ് കാരണം ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു എന്താണ് സംഭവിക്കുന്നത് എല്ലാ പകർപ്പുകളും അല്ലെങ്കിൽ ഇവയെല്ലാം നഷ്ടപ്പെട്ട നിലവിലെ പേജ് ടേബിളിലാണ് ഷാഡോ പേജ് പട്ടികയിൽ കമ്മിറ്റഡായ ട്രാൻസാക്ഷനുകളുടെ മാത്രം എല്ലാ ഫലങ്ങളും അടങ്ങിയിരിക്കുന്നു അതായത് ഷാഡോ പേജ് ടേബിളിനായി ഒന്നും മാറ്റേണ്ടതില്ല നിലവിലെ പേജ് ടേബിൾ മാത്രമാണ് മാറ്റുന്നത് അതുകൊണ്ടാണ് ഇതിനെ നോ അൺണ്ടു നോ റീഡു സ്കീം എന്നും വിളിക്കുന്നത് കാരണം ഒന്നും അൺണ്ടു ചെയ്യേണ്ടതില്ല ഒന്നും വീണ്ടും ചെയ്യേണ്ടതില്ല എന്നിരുന്നാലും ഇവയുടെയെല്ലാം അവസാനം ഷാഡോ പേജ് പട്ടികയാണ് പുതിയ ശരിയായ കാര്യം ഇത് വളരെ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു കാരണം റിക്കവറി ആവശ്യമില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് ഒന്നാമതായി പകർത്തേണ്ട നിരവധി പേജുകൾ ഉണ്ട് കാര്യക്ഷമത കൂടുതലല്ല ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴെല്ലാം കമ്മിറ്റ് ഓവർഹെഡ് വളരെ കൂടുതലായിരിക്കാം കാരണം ഷാഡോ പേജ് ടേബിളിന് ധാരാളം കാര്യങ്ങൾ ആവശ്യമായി വന്നേക്കാം സീരിയൽ ട്രാൻസാക്ഷനുകൾക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ട്രാൻസാക്ഷൻ ഒന്നിനുപുറകെ ഒന്നായിരിക്കണം ട്രാൻസാക്ഷനുകൾ ഇന്റർലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്കീം പ്രവർത്തിച്ചേക്കില്ല ഇത് സീരിയൽ ട്രാൻസാക്ഷനുകൾക്ക് മാത്രമേ പ്രവർത്തിക്കൂ റിക്കവറി ആവശ്യമില്ല എന്നതാണ് നേട്ടം ലോഗുകൾ ഇല്ല ലോഗുകൾ എഴുതുന്നതിനുള്ള ഓവർഹെഡ് ഇല്ല ലോഗുകൾ വായിക്കില്ല ലോഗ് എഴുതുന്നതിനുള്ള ഓവർഹെഡ് ഇല്ല ഡാറ്റാബേസ് റിക്കവറി മാനേജുമെന്റ് സിസ്റ്റങ്ങളിലെ വിഷയം അവസാനിക്കുന്നു നമ്മൾ കുറച്ച് സ്കീമുകൾ പഠിച്ചു ലോഗുകൾ ഉപയോഗിക്കുന്നതും ചെക്ക് പോയിന്റിംഗ് മുതലായവയും ഒടുവിൽ ഷാഡോ പേജിംഗും നമ്മൾ അടുത്തതായി ഷെഡ്യൂളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം പഠിക്കും